ആശംസകൾടെയിൽ മൊഡ്യൂൾ 3 യൂണിറ്റ് നാലിലേക്ക് സ്വാഗതം ഇതും മസ്തിഷ്കം എങ്ങിനെയാണ് പഠിക്കുന്നത് എന്നതിനെകുറിച്ചാണ് മുമ്പത്തെ യൂണിറ്റിൽ തലച്ചോറിന്റെ ശരീരഘടനയെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചു ഇന്നത്തെപ്പോലെ ലോകത്തിലെ ഏറ്റവും സങ്കീർണ്ണമായ തലച്ചോറിന്റെ എല്ലാ വശങ്ങളും മനസിലാക്കാൻ അര മണിക്കൂർ സെഷൻ പര്യാപ്തമല്ലെന്ന് വ്യക്തമാണ് തലച്ചോറിന്റെ വളരെ ഉപരിപ്ലവവും ലളിതവുമായ ഘടനയെയും തലച്ചോറിന്റെ ശരീരഘടനയെയും അടിസ്ഥാനമാക്കി പഠനത്തിന്റെയും അദ്ധ്യാപനത്തിന്റെയും ചില സവിശേഷതകൾ മസ്തിഷകത്തിന്റെ ഘടനയുമായും പ്രവർത്തനവുമായും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം മുമ്പത്തെ യൂണിറ്റിൽ നമ്മൾ അത് പഠിക്കാൻ ശ്രമിച്ചു നിലവിലുള്ള യൂണിറ്റിൽ നമ്മൾ ഇതുതന്നെ തുടരും ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഹ്രസ്വകാല മെമ്മറിയിലേക്കുള്ള വിവര കൈമാറ്റം കൈകാര്യം ചെയ്യുന്നതിന് തലച്ചോറിനെ സഹായിക്കുന്ന ചില ഇൻസ്ട്രക്ഷൻ രീതികൾ ഉണ്ട് നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമ്പോൾ മസ്തിഷ്കം എങ്ങനെ പ്രോസസ്സ് ചെയ്യുമെന്ന് മനസിലാക്കാൻ ശ്രമിക്കാം ആ പ്രോസസ്സിംഗിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കൂടാതെ ഹ്രസ്വകാല മെമ്മറിയിൽ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഇൻസ്ട്രക്ഷൻ രീതികൾ ഉപയോഗിക്കാൻ കഴിയുമോ ഈ കാര്യങ്ങൾ എല്ലാം നമുക്ക് നോക്കാം ഈ ചോദ്യങ്ങളിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് നമ്മൾ മറ്റൊരു പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് അധ്യാപകരെന്ന നിലയിൽ നമ്മൾ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി അവബോധപൂർവ്വം നമ്മൾ നിരവധി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അത് ഉചിതമാണെന്ന് തോന്നുന്നു എന്തുകൊണ്ടാണ് നമ്മൾ അധ്യാപകർക്ക് മസ്തിഷ്ക ശാസ്ത്രത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയേണ്ടതിന്റെ ആവശ്യകത നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങളിലൂടെ ഇത് കൂടുതലായി അംഗീകരിക്കപ്പെടുന്നു അതിനാൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മസ്തിഷ്കം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള മികച്ച ഗ്രാഹ്യത്തിൽ നിന്ന് പ്രയോജനം നേടാം അതുകൊണ്ട് ഞാൻ പറയുന്നത് മസ്തിഷ്കം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് മനസിലാക്കാൻ ഒരു ചെറിയ വൺ ക്രെഡിറ്റ് കോഴ്സ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയും അതൊരു നല്ല തീരുമാനം ആയിരിക്കും എന്നാൽ മനുഷ്യ മസ്തിഷ്കം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ പിന്നിലെ സങ്കീർണ്ണമായ എല്ലാ പ്രക്രിയകളും വിദ്യാർത്ഥികളോ അധ്യാപകരോ മനസ്സിലാക്കേണ്ടതില്ല ഉദാഹരണത്തിന് ഏകദേശം 100 ബില്ല്യൺ ന്യൂറോണുകളും 900 ബില്ല്യൺ ഗ്ലിയൽ സെല്ലുകളും ഉണ്ട് ഗ്ലിയൽ സെല്ലുകളിൽ നിന്ന് ന്യൂറോണുകളിലേക്ക് ഊർജ്ജം എങ്ങനെ മാറുന്നു എല്ലാ ഇലക്ട്രോകെമിക്കൽ ബയോകെമിക്കൽ പ്രക്രിയയും എങ്ങനെ സംഭവിക്കുന്നു ഇതൊന്നും നമ്മൾ മനസിലാക്കേണ്ടതില്ല നമുക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ഒരു നിശ്ചിത തലത്തിലാണ് നമ്മൾ മുഴുവൻ കാര്യങ്ങളും നോക്കാൻ പോകുന്നത് മനുഷ്യരും അവരുടെ തലച്ചോറും എങ്ങനെ വികസിച്ചുവെന്ന് അറിയുക എന്നതാണ് അധ്യാപകർക്ക് കൂടുതൽ പ്രധാനം മനുഷ്യർ വളർന്നുവരുന്ന രീതി വൈജ്ഞാനിക അനുഭവങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു അതിനർത്ഥം ചില വിവരങ്ങൾ ടീച്ചർ കൈമാറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ വിവിധ മാർഗങ്ങളിലൂടെ നമുക്ക് നൽകുകയോ ചെയ്യുന്നു പക്ഷേ ഇത് നടക്കുമ്പോൾ സാമൂഹികവും ജീവശാസ്ത്രപരവുമായ അനുഭവങ്ങൾ ഒരേസമയം സംഭവിക്കുന്നു നമ്മൾ പഠിക്കുമ്പോഴെല്ലാം ഈ മൂന്നു കാര്യങ്ങളും നിലവിലുണ്ട് വൈജ്ഞാനിക സാമൂഹിക ജീവശാസ്ത്രപരമായ അനുഭവങ്ങൾ ഈ അനുഭവങ്ങളെല്ലാം ഒരുമിച്ച് തീരുമാനിക്കുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് വാക്ക് നിങ്ങൾക്ക് അധ്യാപകൻ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് മനസിലാക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അത് നമുക്ക് ആവശ്യമുണ്ടോഉണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും ഓർമ്മിക്കാൻ വേണ്ടി അത് നമ്മുടെ ദീർഘകാല മെമ്മറിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമോ എന്നൊക്കെ ഞങ്ങളുടെ വൈജ്ഞാനിക അനുഭവങ്ങളെ എങ്ങനെ സംയോജിപ്പിക്കും നമ്മൾ TALE 2യിൽ കോഴ്സ് എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്നും TALE മൊഡ്യൂൾ 1 ലെ വൈജ്ഞാനിക മാനത്തെക്കുറിച്ച് എന്തെങ്കിലും മനസിലാക്കിയതെങ്ങനെയെന്നും പരിശോധിച്ചു ഒരു അധ്യാപകന് ഇവയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ അവന് കൂടുതൽ തൃപ്തികരമായ അല്ലെങ്കിൽ ഫലപ്രദമായ ഇൻസ്ട്രക്ഷൻ ചെയ്യാൻ കഴിയും കുറച്ചുകൂടി നോക്കാം വൈജ്ഞാനികവും സാമൂഹികവും ജീവശാസ്ത്രപരവുമായ അനുഭവങ്ങൾ അവ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മുൻകാലങ്ങളിലാണെങ്കിലും ഭൂതകാലം നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളെ സാരമായി സ്വാധീനിക്കുന്നു ഇത് കാര്യമായ സ്വാധീനം ചെലുത്തും അതിനർത്ഥം നമ്മൾ ഇതിനകം കടന്നുപോയ അനുഭവങ്ങളും ക്ലാസ് റൂമിൽ നടക്കുന്ന കാര്യങ്ങളും മറ്റും നമ്മൾ വിവരങ്ങൾ വ്യാഖ്യാനിക്കുകയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്ന രീതിയെ രൂപപ്പെടുത്തുന്നു ഒരു കാര്യം ഓർമ്മിക്കേണ്ടതാണ് നമ്മുടെ തലച്ചോർ എല്ലായ്പ്പോഴും നിഷ്ക്രിയവും സജീവവുമല്ല ടീച്ചർ പറയുന്നത് നിങ്ങൾ വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങൾ പശ്ചാത്തല ശബ്ദങ്ങൾ ട്യൂൺ ചെയ്യുന്നതിന് പ്രവർത്തിക്കുന്നു അതായത് മുറിയിലെ മറ്റ് ആളുകളെ കുറിച്ച് കുറച്ച് ശ്രദ്ധ ചെലുത്തുന്നു മൊത്തത്തിൽ നിങ്ങൾ അധ്യാപകന്റെ വാക്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മറ്റ് ആളുകൾ നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ടീച്ചർ പറയുന്നതിൽ നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല പുറത്തു ഉച്ചത്തിലുള്ള പശ്ചാത്തല ശബ്ദമുണ്ടാകാം ക്ലാസ് റൂമിന് പുറത്ത് എന്തോ സംഭവിക്കുന്നു ചില നിർമ്മാണം നടക്കുന്നു ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഓണാക്കി ടീച്ചർ പറയുന്നതിൽ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താനാകുമോ എന്നതിനെ പശ്ചാത്തല ശബ്ദം സാരമായി ബാധിക്കും അതിനെ നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം ഓർമിക്കുന്നത് ഏറ്റവും ഉച്ചത്തിലുള്ള സിഗ്നലാണ് അതിനർത്ഥം പശ്ചാത്തല ശബ്ദമാണോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്നതാണോ അല്ലെങ്കിൽ ടീച്ചർ പറയുന്നതാണോ ഏതാണ് ശക്തമായ സിഗ്നൽ എന്നാണ് ശ്രദ്ധയും വ്യക്തിപരവും സാമൂഹികവുമായ പ്രസക്തി പോലുള്ള കാര്യങ്ങളാൽ ഈ സിഗ്നലുകൾ വർദ്ധിപ്പിക്കാൻ കഴിയും ടീച്ചർ എന്തെങ്കിലും അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും നിരവധി കാര്യങ്ങൾ നടന്നിട്ടും ഉച്ചത്തിലുള്ള സിഗ്നലായി അതിനെ മാറ്റാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ടീച്ചർ പറയുന്ന ആ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അത് നമുക്ക് ചെയ്യാൻ കഴിയും അത് മാത്രമല്ല ആ പ്രത്യേക കോഴ്സിന്റെ പ്രാധാന്യം എന്താണ് ആ വിഷയം അഭിസംബോധന ചെയ്യുന്ന വ്യക്തിപരവും സാമൂഹികവുമായ പ്രസക്തി എന്നിവയൊക്കെ ഇതിനെ സഹായിക്കുന്നു ഒരു അധ്യാപകൻ ഈ നാല് വശങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ പഠിപ്പിക്കുന്നതെന്തും ഉച്ചത്തിലുള്ള സിഗ്നലായി അവന് മാറ്റാൻ കഴിയും ഉദാഹരണത്തിന് മറ്റൊരു പശ്ചാത്തല ശബ്ദം പല ക്ലാസ് മുറികളിലും വളരെ ചൂടാണ് അതിനാൽ ഫാൻ പ്രവർത്തിക്കുന്നു ഇത് കൊണ്ടുണ്ടാകുന്ന ശബ്ദം ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നതിനെ ശല്യപ്പെടുത്തുന്നു വേറെയും പ്രശ്നമുണ്ട് സാമൂഹികവും വൈകാരികവുമായ ഘടകങ്ങൾ വിദ്യാർത്ഥിയുടെ വൈജ്ഞാനിക കഴിവുകളെയും അക്കാദമിക് നേട്ടങ്ങളെയും സ്വാധീനിക്കുന്നു നാം കാണുന്ന വൈകാരിക ഘടകങ്ങളും വൈജ്ഞാനിക കഴിവുകളെ സ്വാധീനിക്കും ഉദാഹരണത്തിന് പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താതിരിക്കാൻ വൈകാരിക ഘടകം കാരണമാകും എന്താണ് സംഭവിക്കുന്നതെന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വിവരങ്ങൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നു എന്നിവയൊക്കെ തലച്ചോറിന്റെ സാമൂഹിക ഭാഗങ്ങൾ ടാർഗെറ്റുചെയ്യാൻ അധ്യാപകനെ സഹായിക്കും തലച്ചോറിന്റെ സാമൂഹിക ഭാഗം മെച്ചപ്പെടുത്തുക എന്ന കാര്യം ഒരു ക്ലാസ് മുറിയിൽ നിങ്ങൾ എങ്ങനെ പരിപാലിക്കും നിങ്ങൾക്ക് ഒരു പിയർ വർക്ക് കൊടുക്കാം അതായത് നിങ്ങൾ രണ്ടോ മൂന്നോ ആളുകൾക്ക് ഒരു ചെറിയ അസൈൻമെൻറ് നൽകുന്നു അല്ലെങ്കിൽ നിങ്ങൾ മുഖാമുഖം ഇൻസ്ട്രക്ഷൻ നൽകുകയോ ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായി സെൽഫോണുകൾഇന്റർനെറ്റ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് കരുതുക അപ്പോൾ ഈ ഉപകരണങ്ങൾ എല്ലാം ശ്രദ്ധ തിരിക്കാൻ കാരണമാകുന്നു സെൽഫോണുകൾ ശരിയായി ഉപയോഗിക്കുകയാണെങ്കിൽ അവന്റെ ശ്രദ്ധ തിരിക്കാതെ തന്നെ നമുക്ക് ആ സെൽഫോൺ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും ഇത് ഒരു വെല്ലുവിളിയാണ് അധ്യാപകർ മസ്തിഷ്ക ശാസ്ത്രത്തെക്കുറിച്ച് അറിയേണ്ടതിന്റെ ചില കാരണങ്ങളാണിവ എന്റെ അഭിപ്രായത്തിൽ വിദ്യാർത്ഥികൾ പോലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണം ഉപരിപ്ലവമായിട്ടാണെങ്കിലും എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസിലാക്കുമ്പോൾ നിങ്ങൾക്ക് ആ സാഹചര്യത്തോട് പ്രതികരിക്കാനും പഠനത്തിന്റെ കാര്യത്തിൽ അതിൽ നിന്ന് പ്രയോജനം നേടാനും കഴിയും മസ്തിഷ്ക പ്രക്രിയകളുടെ എല്ലാ തലങ്ങളും നമ്മൾ നോക്കില്ല വിവര സംസ്കരണം മെമ്മറി പഠനം നിലനിർത്തൽ കൈമാറ്റം എന്നിങ്ങനെ ഈ അഞ്ചെണ്ണം മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ പ്രധാനപ്പെട്ട അഞ്ച് പ്രക്രിയകൾ ഇവയാണ് നമ്മുടെ പഠനത്തെ സ്വാധീനിക്കുന്ന അനന്തമായ മറ്റ് കാര്യങ്ങളുണ്ട് പക്ഷേ ഈ അഞ്ച് പ്രക്രിയകൾ എന്താണെന്നാണ് നമ്മൾ പ്രധാനമായും പരിശോധിക്കുന്നത് ഈ യൂണിറ്റിൽ നമ്മൾ വിവരങ്ങളുടെ പ്രോസസ്സിംഗിലും മെമ്മറിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നത് ശ്രദ്ധിക്കുക 1950 കളിലും 1960 കളിലും കമ്പ്യൂട്ടറുകൾ നിലവിൽ വന്നുകഴിഞ്ഞതിനു ശേഷം തലച്ചോറിന്റെ മാതൃക ഉണ്ടാക്കാൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുവരുന്നു അതിനർത്ഥം ഇന്ദ്രിയങ്ങളിലൂടെ വിവരങ്ങൾ വരുന്ന ചില ഇൻപുട്ട് ഉപകരണം നിങ്ങലിലുണ്ടെന്നാണ് അതിനാൽ ഇവയെല്ലാം ഇൻപുട്ട് ഉപകരണങ്ങളാണ് തുടർന്ന് നിങ്ങൾക്ക് ഒരു മെമ്മറി ഉണ്ട് ഈ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതും മറ്റും അവിടെയാണ് ഒരു കമ്പ്യൂട്ടർ ഉചിതമായ ഉദാഹരണമാണെന്ന് തോന്നുന്നു വിവരങ്ങൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നുവെന്ന് വിശദീകരിക്കാൻ ആളുകൾ ഇപ്പോഴും കമ്പ്യൂട്ടർ ആണ് ഉപയോഗിക്കുന്നത് ആദ്യത്തെ കാര്യം മസ്തിഷ്കം വിവരങ്ങൾ സംഭരിക്കുന്നു പക്ഷെ കമ്പ്യൂട്ടറിൽ സംഭവിക്കുന്നതുപോലെ പഠിക്കുക സംഭരിക്കുക ഓർമ്മിക്കുക എന്നിവ നിശ്ചിത പ്രക്രിയകളല്ല എന്നതാണ് പ്രശ്നം മെമ്മറിയുടെ ചില ഭാഗം ഉപയോഗിക്കുന്നു തുടർന്ന് ഒരു സിപിയു ഉണ്ട് അത് ആ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുകയും മെമ്മറിയിൽ തിരികെ വയ്ക്കുകയും ചെയ്യുന്നു ഇത് തലച്ചോറിൽ ഇങ്ങനെ അല്ല സംഭവിക്കുന്നത് അതിനാൽ എല്ലാത്തിനും കമ്പ്യൂട്ടർ ഉപമ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഈ പ്രോസസർ പഠനം സംഭരണം ഓർമ്മിക്കൽ എന്നിവ ചലനാത്മകവും സംവേദനാത്മകവുമായ പ്രക്രിയകളാണ് ഓരോ തവണയും നിങ്ങൾ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ മുൻപ് ചെയ്ത അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കണമെന്നില്ല കൂടുതൽ പ്രോസസ്സിംഗിനായി നമ്മുടെ പരിതസ്ഥിതിയിൽ നിന്നുള്ള വിവരങ്ങൾ ഇന്ദ്രിയങ്ങൾ എങ്ങനെ നിരസിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നുവെന്നും അവ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നുവെന്നും ഏത് സാഹചര്യങ്ങളിൽ അവ സംഭരിക്കപ്പെടുന്നു എന്നെല്ലാം കാണിക്കുന്ന ഒരു മാതൃക നമുക്ക് ആവശ്യമാണ് ഉദാഹരണത്തിന്ഒരു മസ്തിഷ്കം പരിസ്ഥിതിയിൽ നിന്ന് എന്ത് വിവരങ്ങളാണ് സ്വീകരിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ വിഷ്വൽഭാഗം മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ശ്രദ്ധയിൽ ഒരുപാടു കാര്യങ്ങൾ പുറത്ത് അനന്തമായ കാര്യങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു ഒരു കമ്പ്യൂട്ടർ വീക്ഷണകോണിൽ നിന്ന് നോക്കിയാൽ ഒരു വലിയ കമ്പ്യൂട്ടറിന് ഒരു വർഷത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വിവരങ്ങൾ ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നു അതിനർത്ഥം നിങ്ങൾക്ക് വരുന്ന 99 9 ശതമാനം വിവരങ്ങളും നിരസിക്കാനാണ് മസ്തിഷ്കം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കാരണം എല്ലാ ഇന്ദ്രിയങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഡാറ്റ സ്വീകരിക്കാൻ അതിനു കഴിയില്ല കമ്പ്യൂട്ടറുകൾക്കു ഒരു ദ്രുതഗതിയിലുള്ള പ്രചാരമാണ് ഉണ്ടായത് അതുകൊണ്ടു തന്നെ തലച്ചോർ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ കമ്പ്യൂട്ടർ മോഡൽ ഉപയോഗിച്ചു തുടങ്ങി ചെറിയ പിടിക്കാവുന്ന കാൽക്കുലേറ്റർ പരിശോധിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസിലാക്കാം മനുഷ്യ മസ്തിഷ്കം സങ്കീർണ്ണമായ ഗണിതശാസ്ത്ര പ്രവർത്തനങ്ങൾ പരിഹരിക്കുന്നതിനായി ഉപയോഗിക്കാൻ സാധ്യമല്ല സങ്കീർണ്ണമായ ഗണിതശാസ്ത്ര പ്രവർത്തനങ്ങൾ നടത്താൻ മസ്തിഷ്കം രൂപകൽപ്പന ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ മാത്രമല്ല കമ്പ്യൂട്ടറുമായി മത്സരിക്കാനും കഴിയില്ല പക്ഷേ ഇന്നത്തെ കമ്പ്യൂട്ടറുകൾക്ക് മനുഷ്യ മസ്തിഷ്കം ചെയ്യുന്നത് പോലെ എളുപ്പത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല ഭാവിയിൽ എഐ മെഷീൻ ലേണിംഗ് എന്നിവയൊക്കെ വളർന്ന് ഇത് സംഭവിച്ചുകൂടായ്കയില്ല ഇപ്പോൾ മനുഷ്യർ ഒരു തീരുമാനമെടുക്കുന്ന രീതിയിൽ കമ്പ്യൂട്ടറുകൾക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല പുറമേയുള്ള ശാരീരികവും സാമൂഹികവുമായ ലോകങ്ങളുമായി നിരന്തരം ഇടപഴകുന്ന ഒരു തുറന്ന സമാന്തര പ്രോസസ്സിംഗ് സംവിധാനമാണ് മനുഷ്യ മസ്തിഷ്കം ഇത് എല്ലായ്പ്പോഴും അതിൽ നിന്ന് പൊതുവായവയെ വിശകലനം ചെയ്യുന്നു സമന്വയിപ്പിക്കുന്നുസ്വാംശീകരിക്കുന്നു ഒരു പുതിയ അനുഭവം വരുമ്പോഴെല്ലാം നമ്മൾ ആ വിവരങ്ങൾ നമ്മുടെ നിലവിലുള്ള കാര്യങ്ങളുമായി താരതമ്യം ചെയ്യുന്നുഅത് അർത്ഥവത്താണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ എന്റെ പൊതുവായവ നിഗമനങ്ങൾ വീണ്ടും സംഗ്രഹിക്കും അതിനർത്ഥം ഞാൻ മുമ്പ് ചെയ്തതെന്തും ഇപ്പോൾ പരിഷ്ക്കരിച്ചുവെന്നു വരാം എന്റെ അടുത്തേക്ക് വരുന്ന വിവരങ്ങൾ അർത്ഥവത്താണെന്ന് ഞാൻ കണ്ടെത്തിയാൽ ഞാൻ സംഗ്രഹിക്കുന്ന രീതി മാറാം ഈ അർത്ഥവത്തായ കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം തലച്ചോറിനെക്കുറിച്ചുള്ള മറ്റൊരു രസകരമായ കാര്യം ഒരു കമ്പ്യൂട്ടറിൽ വിഷ്വൽ ഇമേജ് ഉണ്ടെങ്കിൽ അത് പിക്സലുകളുടെ അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കുകയും തുടർന്ന് നിങ്ങൾ നൽകുന്ന ഏത് വിവരവും അതായത് നിറങ്ങൾ തീവ്രത എന്നിവ അനുസരിച്ച് ഓരോ പിക്സലും സൂക്ഷിക്കുകയും ചെയ്യും പക്ഷേ മസ്തിഷ്കം ആ രീതിയിൽ സംഭരിക്കുന്നില്ല അവിടെ ഓരോ കാര്യവും പാറ്റേണുകളുടെ ഒരു ശ്രേണിയാണ് എങ്ങനെയോ ഈ പാറ്റേണുകൾ തലച്ചോറിൽ സൂക്ഷിക്കുന്നു ഒരു പാറ്റേണും പൂർണ്ണമാകണമെന്നില്ല ഇത് ശബ്ദമോ അല്ലെങ്കിൽ ചിത്രമോ ആയാലും വിവരങ്ങൾ പൂർണ്ണമാകില്ല അതിനർത്ഥം ഒരു ചിത്രം പല പാറ്റേണുകൾ ആയി വിഭജിച്ചിരിക്കുന്നു അവ സംഭരിക്കപ്പെടുന്നു ചിത്രം വ്യത്യസ്ത സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നു അവയെ എങ്ങിനെയോ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനർത്ഥം മസ്തിഷ്കം ഒരു പ്രത്യേക ചിത്രത്തിന്റെ ഒരു പാറ്റേണുമായി ബന്ധിപ്പിക്കുകയും അവയെല്ലാം ലിങ്കുചെയ്യുകയും ചെയ്യുന്നു മാത്രമല്ല ഏതെങ്കിലും ഒരു ഭാഗം തിരിച്ചുവിളിക്കുന്നത് മുഴുവൻ പാറ്റേണുകളെയും സജീവമാക്കും അതാണ് രസകരമായ കാര്യം അതിലും പ്രധാനമായി മനുഷ്യന്റെ പ്രോസസ്സിംഗ് ഗ്രാഹ്യം സർഗ്ഗാത്മകത എന്നിവയിൽ വികാരങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു 90 ശതമാനം തീരുമാനങ്ങളും ഞാൻ ഒരു ഏകദേശ നമ്പർ മാത്രമാണ് നൽകുന്നത് വൈകാരികമായി എടുക്കുന്നു അല്ലെങ്കിൽ വികാരങ്ങൾക്കു വിധേയമായാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഓരോ തവണയും ചില യുക്തി ഉപയോഗിച്ച് അവ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കില്ല യുക്തിയെ അടിസ്ഥാനമാക്കി ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ തീരുമാനമെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു കപ്പ് കാപ്പി പോലും കുടിക്കില്ല കാരണം നിങ്ങൾ ആ വിവരങ്ങൾ യുക്തിപരമായി പ്രോസസ്സ് ചെയ്യുന്നു അതിനാൽ മനുഷ്യന്റെ പ്രവൃത്തികളിൽ വികാരങ്ങൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു മനുഷ്യന്റെ മസ്തിഷ്കം സൃഷ്ടിക്കുന്ന ആശയങ്ങൾ പലപ്പോഴും ചിത്രങ്ങളിൽ നിന്നാണ് വരുന്നത് യുക്തിസഹമായ നിർദേശങ്ങളിൽ നിന്നല്ല മെമ്മറികൾ ചലനാത്മകമാണ് പുതിയ വിവരങ്ങളെ ആശ്രയിച്ച് അവ തുടർച്ചയായി മാറുന്നുവെന്നും തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളിൽ അവ ചിതറിക്കിടക്കുന്നുവെന്നും എന്നാണ് ഇതിനർത്ഥം പുതിയ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യപ്പെടുമ്പോൾ ഓരോ അനുഭവത്തിന്റെയും ഫലമായി മസ്തിഷ്കം സ്വന്തം ഗുണങ്ങളെ മാറ്റുന്നു അതേസമയം കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ അതേ വിവരങ്ങൾ നോക്കുമ്പോൾ അത് വ്യത്യസ്തമായി പ്രോസസ്സ് ചെയ്യുന്നുകാരണം അപ്പോഴേക്ക് നമ്മുടെ മസ്തിഷ്കം മാറി ഒരുപക്ഷെ ഭാവിയിലെ കമ്പ്യൂട്ടറുകളിൽ മനുഷ്യ തലച്ചോറിന്റെ ഈ ഗുണങ്ങൾ കഴിവുകൾ ബലഹീനതകൾ എന്നിവ അനുകരിക്കപ്പെടാൻ ഒരു ദശകത്തിനുള്ളിൽ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ സവിശേഷതകളെ അനുകരിക്കുന്നതിന് കമ്പ്യൂട്ടർ രൂപകൽപ്പന ചെയ്യാൻ അതിനേക്കാൾ കൂടുതൽ വർഷങ്ങൾ എടുക്കുമോ എന്ന് നമുക്ക് അറിയില്ല ഡേവിഡ് സൂസയുടെ ഏകദേശ മോഡൽ നൽകിയിരിക്കുന്നു സ്ലൈഡിംഗ് ബ്ലൈൻഡ് പോലെയാണ് ഇത് പരിസ്ഥിതിയിൽ നിന്ന് ഈ അഞ്ച് സെൻസറുകളിലൂടെ ഇൻപുട്ട് വരുന്നു ഒരുപക്ഷേ 99 9 ശതമാനം വിവരങ്ങളും സെൻസറി രജിസ്റ്ററിൽ നിന്ന് പുറന്തള്ളപ്പെടും കാരണം അവ വളരെയധികം ഉണ്ട് അതിൽ എല്ലാം നമുക്ക് താൽപ്പര്യമുള്ള കാര്യങ്ങൾ ആകണമെന്നില്ല ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഇരുന്നു എന്റെ മുന്നിലുള്ള എല്ലാ കസേരകളും നോക്കുകയാണെങ്കിൽ രൂപം കൊള്ളുന്ന ചിത്രം ഫിൽട്ടർ ചെയ്യപ്പെടുന്നു കാരണം അത് പ്രസക്തമല്ല അതിനാൽ ഇതിൽ നിന്ന് അവശേഷിക്കുന്നവയെല്ലാം ഇമ്മിഡിയറ്റ് മെമ്മറിയിലേക്ക് പ്രവേശിക്കും ഈ മുൻകാല അനുഭവം അനുസരിച്ച് എന്താണ് കളയേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ തീരുമാനിക്കും എന്താണ് പുറന്തള്ളേണ്ടത് എന്താണ് പെട്ടെന്നുള്ള മെമ്മറിയിലേക്ക് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഒരു മുൻകാല അനുഭവമാണ് മെമ്മറിയിലേക്ക് പ്രവേശിക്കുന്ന വിവരങ്ങൾ എന്തുതന്നെയായാലും അതിൽ അൽപ്പമെങ്കിലും പുറന്തള്ളപ്പെടും മാത്രമല്ല അതിൽ ചില ഭാഗങ്ങൾ മാത്രമേ നമ്മുടെ വർക്കിംഗ് മെമ്മറിയിലേക്ക് വരൂ ഇതും മുൻകാല അനുഭവത്തിലൂടെയാണ് തീരുമാനിക്കുന്നത് പ്രവർത്തിക്കുന്ന മെമ്മറിയിൽ നിന്ന് അത് മനസിലാക്കി കുറച്ച് അർത്ഥം കണ്ടെത്തിയ ശേഷം ഈ വിവരങ്ങൾ ദീർഘകാല മെമ്മറിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും അവ മോഡലിൽ ഫയലിംഗ് ക്യാബിനറ്റുകളായി കാണിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഘടകം സംഭരിക്കുമ്പോൾ അതേ കാര്യവുമായി ബന്ധപ്പെട്ട് ഫയലിംഗ് കാബിനറ്റുകളിലൊന്നിലേക്ക് പ്രവേശിക്കുകയും മറ്റൊരു പാറ്റേൺ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തേക്കാം അത് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നമുക്ക് അറിയില്ല ഇതെല്ലാം ഒരുമിച്ച് സംയോജിപ്പിച്ചിരിക്കുന്നു ഈ ഫയലിംഗ് കാബിനറ്റുകളിൽ സംഭരിച്ചിരിക്കുന്ന വിവരങ്ങൾ നമ്മുടെ ബുദ്ധി എന്ന് അറിയപ്പെടുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യത്തെ ആശ്രയിച്ച് ഇവിടെ നിന്ന് വിവരങ്ങൾ വീണ്ടെടുത്ത് പ്രവർത്തന മെമ്മറിയിലേക്ക് തിരികെ കൊണ്ടുവരും ഉദാഹരണത്തിന് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ദീർഘകാല മെമ്മറിയിൽ നിന്ന് എന്തെങ്കിലും വീണ്ടെടുക്കുകയും പ്രവർത്തന മെമ്മറിയിലേക്ക് കൊണ്ടുവന്ന് ഒരു ഔട്ട്പുട്ട് നിർമ്മിക്കുകയും ചെയ്യും അതിന്റെ ഫലങ്ങൾ വീണ്ടും സ്റ്റോറേജിലേക്കു പോകുന്നു ഇത് നിലവിലെ മോഡലുകളിൽ ഒന്നാണ് ഇത് പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ട മോഡലാണെന്ന് നമ്മൾ പറയുന്നില്ല കാരണം ഇത് മോഡലാണോ എന്ന് എല്ലാ ആളുകളും കൃത്യമായി സമ്മതിക്കുന്നില്ല ഇത് ഇപ്പോഴും പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ് മുഴുവൻ ഘടനയും എങ്ങനെയെന്ന് നമ്മൾ ഇതിനകം പരിശോധിച്ചു ഇനി വിവരങ്ങൾ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള ഇൻകമിംഗ് വിവരങ്ങൾ ഫിൽട്ടർ ചെയ്ത ശേഷം അത് എത്രത്തോളം പ്രധാനമാണെന്ന് നിർണ്ണയിക്കുന്നുഅതിനുശേഷം വിവരങ്ങൾ സെൻസറി രജിസ്റ്ററിലൂടെ ഹ്രസ്വകാല മെമ്മറിയിലേക്ക് പോകുന്നുനേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ക്ലാസ് റൂമിനുള്ളിലായിരിക്കുമ്പോൾ വരുന്ന 99 ശതമാനം സെൻസറി വിവരങ്ങളും ഫിൽട്ടർ ചെയ്യപ്പെടുന്നു ഇൻകമിംഗ് വിവരങ്ങളുടെ ഫിൽട്ടറിംഗ് പ്രധാനമായും ചെയ്യുന്നത് വ്യക്തിയുടെ മുൻകാല അനുഭവമാണ് സെൻസറി മെമ്മറി വളരെ ഹ്രസ്വ സമയത്തേക്ക് വിവരങ്ങൾ സൂക്ഷിക്കുന്നു അതിനർത്ഥം അവിടെയുള്ള എല്ലാ ചിത്രങ്ങളും താൽക്കാലികമായി സെൻസറി മെമ്മറിയിലേക്ക് വരുന്നു എന്നാണ് അതിൽ ചിലത് വളരെ പ്രധാനമാണെന്ന് വ്യക്തി കണ്ടെത്തുകയാണെങ്കിൽ ശ്രദ്ധ അതിലേക്ക് വഴിതിരിച്ചുവിടും പക്ഷേ സാധാരണയായി ഒരു സെക്കൻഡിനുള്ളിൽ സെൻസറി മെമ്മറി മായ്ക്കപ്പെടുന്നു നേരത്തെ കാണിച്ചതുപോലെ ഹ്രസ്വകാല മെമ്മറി എന്ന് വിളിക്കപ്പെടുന്നവയിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ഇമ്മിഡിയറ്റ് മെമ്മറിയും മറ്റൊന്ന് വർക്കിംഗ് മെമ്മറിയുമാണ് ഇമ്മിഡിയറ്റ് മെമ്മറി വർക്കിംഗ് മെമ്മറി ഇവയിൽ വളരെയധികം ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് ഹ്രസ്വകാല മെമ്മറി എന്ന ഒരൊറ്റ ഇനമായി ഇത് കൈകാര്യം ചെയ്യാൻ ചില ആളുകൾ ആഗ്രഹിക്കുന്നു ഈ ഇന്റർമീഡിയറ്റ് മെമ്മറിയും വർക്കിംഗ് മെമ്മറിയും വേർതിരിക്കുന്നത് പ്രയോജനകരവും സൌകര്യപ്രദവുമാണെന്ന് ഡേവിഡ് സൂസ കരുതുന്നു മോഡലിലെ ഇമ്മിഡിയറ്റ് മെമ്മറി ഒരു ക്ലിപ്പ്ബോർഡായി കണക്കാക്കാം അത് എങ്ങനെ വിനിയോഗിക്കണം എന്ന് തീരുമാനമെടുക്കുന്നതുവരെ വിവരങ്ങൾ ഹ്രസ്വമായി ഇടുന്ന സ്ഥലമാണ് ആരോ ഒട്ടിച്ചു വച്ച ഒരു പോസ്റ്റ് ഇറ്റ് കുറിപ്പ് പോലെ ആരെങ്കിലും അത് വേഗത്തിൽ പരിഗണിക്കുകയോ നീക്കംചെയ്യുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നു ഇന്റർമീഡിയറ്റ് മെമ്മറി ഉപബോധപൂർവ്വം അല്ലെങ്കിൽ ബോധപൂർവ്വം പ്രവർത്തിക്കുന്നു 30 സെക്കൻഡ് വരെ ഡാറ്റ സൂക്ഷിക്കുന്നു ദയവായി ഈ നമ്പറുകൾ ഒരു സൂചനമാത്രമാണ് കൃത്യമാകണമെന്നില്ല ഈ 30 സെക്കൻഡ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യത്യാസപ്പെടാം പക്ഷേ അതാണ് ഇന്റർമീഡിയറ്റ് മെമ്മറിയിൽ ഡാറ്റ വച്ചിരിക്കുന്ന സമയ ക്രമം ഏറ്റവും പ്രധാനമായി ഭീഷണികളും വികാരങ്ങളും മെമ്മറി പ്രോസസ്സിംഗിനെ ബാധിക്കുന്നു ഉള്ളടക്കത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾക്ക് ശാരീരിക സുരക്ഷിതത്വവും വൈകാരിക സുരക്ഷിതത്വവും അനുഭവപ്പെടണം ചിലപ്പോൾ ആളുകൾക്ക് ശാരീരികമായി സുരക്ഷിതത്വം തോന്നില്ല പക്ഷേ ശാരീരിക ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ശ്രദ്ധ പോകുന്നു പക്ഷേ വൈകാരികമായി സുരക്ഷിതമാകുക എന്നതാണ് കൂടുതൽ പ്രധാനം ഒരു പ്രത്യേക ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥിക്ക് വൈകാരികമായി സുരക്ഷിതത്വം അനുഭവപ്പെടില്ല ഒരർത്ഥത്തിൽ വിഷയം വളരെ മുകളിലാണെന്നോ അധ്യാപകൻ വളരെ ഭയപ്പെടുത്തുന്നതാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വികാരങ്ങളാണെന്നോ അയാൾക്ക് തോന്നാം ഉദാഹരണത്തിന് പരീക്ഷകൾ വരുന്നു നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല അതിനാൽ നിങ്ങൾ വൈകാരികമായി അസ്വസ്ഥരാണ് നിങ്ങൾക്ക് ഉള്ളടക്കത്തിൽ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്ന് അവയെല്ലാം തീരുമാനിക്കും നിലനിൽപ്പിനെ ബാധിക്കുന്ന ഡാറ്റയും വികാരങ്ങൾ സൃഷ്ടിക്കുന്ന ഡാറ്റയും പുതിയ പഠനത്തിനായുള്ള ഡാറ്റയെക്കാൾ മുമ്പായി പ്രോസസ്സ് ചെയ്യുന്നു അതിനാൽ അധ്യാപകർ ശരിക്കും ഓർക്കേണ്ടത് ഇതാണ് അതിജീവനത്തെയും വികാരങ്ങളെയും സൃഷ്ടിക്കുന്ന ഡാറ്റ ആദ്യം വരുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥി ഇത് സംബന്ധിച്ച് യഥാർത്ഥത്തിൽ സുഖകരമായ അവസ്ഥയിൽ ആണെന്ന് അധ്യാപകർ ഉറപ്പുവരുത്തണം അപ്പോൾ മാത്രമേ അവന് ശരിയായി പഠിക്കാൻ കഴിയു പഠന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വികാരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ നിർണ്ണയിക്കുന്നു നേരത്തെ സമാന മൊഡ്യൂളിലെ യൂണിറ്റിൽ പഠന സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു നിങ്ങൾ മനസിലാക്കിയത് പോലെ പഠന സാഹചര്യങ്ങൾ പഠന നിലവാരത്തെ വളരെയധികം നശിപ്പിക്കും മാനേജുമെന്റും അധ്യാപകനും ഈ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അതാണ് വിദ്യാർത്ഥി പഠിക്കാൻ പോകുകയാണോ ഇല്ലയോ എന്നതിനെ വളരെയധികം വ്യത്യാസപ്പെടുത്തുന്നത് പ്രവർത്തന മെമ്മറി പ്രധാനപ്പെട്ടതെന്ന് കരുതുന്നതെന്തും പ്രോസസ്സ് ചെയ്ത ശേഷം അത് പ്രവർത്തിക്കുന്ന മെമ്മറിയിലേക്ക് വരുന്നു പ്രവർത്തിക്കുന്ന മെമ്മറിയുടെ വലുപ്പത്തെക്കുറിച്ച് ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നു ഇത് എല്ലാവർക്കും തുല്യമാണോ ഇത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണോ ഏത് പ്രായത്തിലാണ് വലുപ്പം മാറുക പ്രവർത്തിക്കുന്ന നിരവധി ഓർമ്മകൾ ഉണ്ടോ വളരെയധികം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അതൊന്നും ഇപ്പോൾ പരിഗണിക്കേണ്ടതില്ല വർക്കിംഗ് മെമ്മറി ഒരു താൽക്കാലിക മെമ്മറി കൂടിയാണ് ബോധപൂർവമായ പ്രോസസ്സിംഗ് നടക്കുന്ന സ്ഥലമാണിത് അതേസമയം ഇന്റർമീഡിയറ്റ് മെമ്മറിയുടെ കാര്യത്തിൽ ഇത് ബോധപൂർവമോ അബോധാവസ്ഥയിലുള്ളതോ ആയ പ്രോസസ്സിംഗ് ആകാം പ്രവർത്തന മെമ്മറിയെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരേയൊരു കാര്യം ഇത് വളരെ പരിമിതമായ ശേഷിയുള്ളതാണ് ഇതിലാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരണം അതിനു നമുക്ക് ശ്രദ്ധ ആവശ്യമാണ് നമ്മൾ വളരെയധികം കാര്യങ്ങൾ വളരെയധികം ആശയങ്ങൾ വളരെയധികം ഇൻപുട്ടുകൾ വളരെയധികം നടപടിക്രമങ്ങൾ എന്നിവ വർക്കിംഗ് മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിന് ഇടമുണ്ടാകില്ല അപ്പോൾ വ്യക്തി ദീർഘകാല മെമ്മറിയിലേക്ക് എന്തെങ്കിലും തള്ളിയിടണം നിലവിലുള്ളതിനെ കൈകാര്യം ചെയ്യുക എന്നിട്ട് കാര്യങ്ങൾ തിരികെ കൊണ്ടുവരിക അവന്റെ മനസ്സ് പ്രവർത്തിക്കേണ്ട രീതി ഇതാണ് പ്രവർത്തന മെമ്മറി വളരെ പരിമിതമായ ശേഷിയുള്ള ഒന്നാണെന്ന് അധ്യാപകനും ഓരോ വ്യക്തിയും ഓർമ്മിക്കേണ്ടതാണ് വർക്കിംഗ് മെമ്മറിയിലെ വിവരങ്ങൾ സെൻസറി ഇന്റർമീഡിയറ്റ് മെമ്മറികളിൽ നിന്ന് വരാം അല്ലെങ്കിൽ ദീർഘകാല മെമ്മറിയിൽ നിന്ന് വീണ്ടെടുക്കാം ഇന്റർമീഡിയറ്റ് മെമ്മറിയിൽ നിന്ന് ഇത് വർക്കിംഗ് മെമ്മറിയിലേക്ക് വരുന്നു ഇത് ദീർഘകാല മെമ്മറിയിൽ നിന്ന് വീണ്ടെടുത്ത വിവരങ്ങളിൽ നിന്നും വരാം ഇത് ഒരു വർക്ക് ടേബിൾ പോലെയാണ് ഈ വിവരങ്ങളെല്ലാം വീണ്ടെടുക്കുന്നതു മുതൽ ഇതുവരെ നിങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നു അത് പ്രധാനമാണ് അല്ലെങ്കിൽ അർത്ഥവത്താണ് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസിലാക്കാം അതിന് അർത്ഥമുണ്ട്അങ്ങിനെയെങ്കിൽ അത് ദീർഘകാല മെമ്മറിയിൽ സംഭരിക്കപ്പെടുന്നു രണ്ട് സംവിധാനങ്ങളുണ്ട് ഫോണോളജിക്കൽ വിസോസ്പേഷ്യൽ റിഹേഴ്സൽ ലൂപ്പുകൾ ഫോണോളജിക്കൽ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏത് ശബ്ദ വിവരങ്ങളും ഇതിൽ പെടും വിവരം പ്രോസസ്സ് ചെയ്തു എൻകോഡു ചെയ്യുന്ന രണ്ട് പ്രധാന ലൂപ്പുകളാണ് ഇവ നമ്മൾ പറഞ്ഞതുപോലെ ഇത് വ്യത്യസ്ത പാറ്റേണുകളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ഈ പാറ്റേണുകൾ മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കുന്നു ആ പ്രോസസ്സിംഗ് എല്ലാം മെമ്മറിയിലേക്ക് വരുന്ന ഡാറ്റ എൻകോഡുചെയ്യുന്നത് ഫോണോളജിക്കൽ വിഷ്വോസ്പേഷ്യൽ റിഹേഴ്സൽ ലൂപ്പുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തന മെമ്മറിയുടെ പരിമിതമായ ശേഷിയുടെ അർത്ഥമെന്താണ് അതിന് നമ്മൾ വിവരങ്ങൾ ചങ്കിംഗ് ചെയ്യേണ്ടതുണ്ട് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ വളരെയധികം കാര്യങ്ങൾ ധാരാളം ആശയങ്ങൾ ധാരാളം നടപടിക്രമങ്ങൾ എന്നിവ അവതരിപ്പിക്കരുത്അതിനെ തുടർന്ന് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വിദ്യാർത്ഥി ഒരു പ്രശ്നം പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുക അത് ശരിയല്ല അത ഭാഗങ്ങളായി മാറ്റുക അത് നിങ്ങൾ പൂർത്തിയാക്കി പരിഹരിക്കുക പൂർണ്ണമായി മനസിലാക്കി ദീർഘകാല മെമ്മറിയിലേക്ക് അയയ്ക്കുക തുടർന്ന് അടുത്ത ഓരോ ഭാഗവും പഠിക്കുക ഒരു പാഠവുമായി ഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ എണ്ണം വിദ്യാർത്ഥികളുടെ ശേഷി പരിധിക്കുള്ളിൽ നിർത്താൻ അധ്യാപകന് കഴിയുമെങ്കിൽ അവർ പഠിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഓർമിക്കാൻ സാധ്യതയുണ്ട് വാസ്തവത്തിൽ പല അദ്ധ്യാപകരും അത് അവബോധപൂർവ്വം ചെയ്യുന്നു പക്ഷേ നിങ്ങൾക്കത് അറിയാമെങ്കിൽ നിങ്ങൾ വിവരങ്ങൾ ഉചിതമായി ഭാഗിച്ചു ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കും പ്രവർത്തിക്കുന്ന മെമ്മറി പോലും താൽക്കാലികമാണ് മാത്രമല്ല ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമേ ഇനങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയൂ പുതിയ വിവരങ്ങൾ വരാൻ ഇടം നൽകേണ്ടതിനാൽ നിങ്ങൾക്ക് ഒരു ദീർഘകാലത്തേക്ക് വിവരങ്ങൾ സൂക്ഷിക്കാൻ കഴിയില്ല ആ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിന് നിങ്ങൾ എത്ര സമയം ചെലവഴിക്കുന്നു എന്നത് വിദ്യാർത്ഥിയുടെ പ്രചോദനത്തെ ആശ്രയിച്ചിരിക്കും കാരണം ആ പാഠം പ്രത്യേക ഭാഗം ഉൾക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ എനിക്ക് താൽപ്പര്യമില്ല എങ്കിൽ ഞാൻ അത് വേഗത്തിൽ തന്നെ തള്ളികളയും ഒന്നുകിൽ ഞാൻ അത് കളയുന്നു അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം ദീർഘകാല മെമ്മറിയിലേക്ക് കൈമാറ്റം ചെയ്യുന്നു നിങ്ങൾക്ക് 15 മുതൽ 20 മിനിറ്റ് വരെയുള്ള പാഠങ്ങൾ ഒരു 40 മിനിറ്റ് പാഠത്തേക്കാൾ ഉയർന്ന വിദ്യാർത്ഥി താൽപ്പര്യങ്ങൾ നിലനിർത്താൻ കാരണമാകുമെന്ന് പറയാൻ കഴിയും എനിക്ക് 40 മിനിറ്റ് മുഴുവൻ ഒരു കാര്യം അവതരിപ്പിക്കാൻ ആവശ്യമുണ്ടെന്നു ചിലർ വാദിച്ചേക്കാം അതെഅത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഓരോ തവണയും നിങ്ങൾ 40 മിനിറ്റ് സെഷൻ നടത്തുമ്പോൾ വിദ്യാർത്ഥികളുടെ പഠനം കുറയുന്നു എന്നല്ല പക്ഷേ ഒരു ശരാശരി വിദ്യാർത്ഥിക്ക് 15 മുതൽ 20 മിനിറ്റ് വരെ ഘടകങ്ങളായി വിഭജിക്കുന്നതാണ് നല്ലത് അതിനർത്ഥം 15 20 മിനിറ്റ് ദൈർഘ്യമുള്ള അവതരണത്തിനുശേഷം നിങ്ങൾ വിദ്യാർത്ഥികളെ മറ്റെന്തെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അതിനു ശേഷം അടുത്ത ഭാഗത്തേക്ക് മടങ്ങുകയും ചെയ്യുക വിവരങ്ങൾ അർത്ഥവത്താണെങ്കിൽ അത് സംഭരിക്കപ്പെടാൻ സാധ്യതയുണ്ട് രണ്ട് പദങ്ങളുണ്ട് യുക്തിയും അർത്ഥവും ഇവ രണ്ടും വ്യത്യസ്തമാണ് യുക്തി എന്നതിനർത്ഥം പഠിതാവിന് അവന്റെ അവളുടെ മുൻകാല അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും ഉദാഹരണത്തിന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ റൂത്ത് ഹർവിറ്റ്സ് മാനദണ്ഡം അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയട്ടെ മുഴുവൻ യുക്തിയും വിദ്യാർത്ഥിക്ക് മനസിലാകുന്നു അതായത് മാട്രിക്സ് അല്ലെങ്കിൽ സമവാക്യം എങ്ങിനെ എഴുതാം ഇടതു അല്ലെങ്കിൽ വലതു പ്ലെയിനിലെ റൂട്സ് എങ്ങിനെ കണ്ടുപിടിക്കാംഅങ്ങിനെയുള്ള എല്ലാ കണക്കും നമുക്ക് മനസിലാകും പക്ഷേ നിങ്ങൾക്ക് ഒരു അർത്ഥവും കണ്ടെത്താൻ കഴിഞ്ഞേക്കില്ല ഞാൻ എവിടെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് ആ സമയത്ത് അത് എനിക്ക് അതിന്റെ ആവശ്യം അറിയില്ല അതിനാൽ എന്തെങ്കിലും യുക്തി ഉണ്ടെന്നു തോന്നാം പക്ഷെ അതിനൊരു അർത്ഥമുണ്ടെന്നു തോന്നില്ല അർത്ഥം ഉണ്ട് എന്നത് അത് പഠിതാവിന് പ്രസക്തമാണോ എന്ന് സൂചിപ്പിക്കുന്നു പഠിതാവ് അത് അതെ ഞാൻ എവിടെയാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയാം എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത് പ്രസക്തമാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് ദീർഘകാല മെമ്മറിയിലേക്ക് മാറ്റും അതേ ഇനം നിങ്ങൾക്ക് ഒരു അർത്ഥവുമില്ല എന്ന് തോന്നിയാൽ ദീർഘകാല മെമ്മറിയിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നാൽ ഒരേ കാര്യം ഒരു ക്ലാസ് മുറിയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യമായി പ്രസക്തമായി തോന്നാൻ സാധ്യതയില്ല കാരണം ഓരോ വിദ്യാർത്ഥിയും വ്യത്യസ്തനാണ് കൂടാതെ അവന്റെ മുൻകാല അനുഭവം വ്യത്യസ്തവുമാണ് ചില വിദ്യാർത്ഥികൾ ഇത് പ്രസക്തമെന്ന് തോന്നും ചില വിദ്യാർത്ഥികൾക്ക് ഇത് പ്രസക്തമല്ല എന്ന് തോന്നും നമ്മൾ പറഞ്ഞതുപോലെ യുക്തിയും അർത്ഥവും പരസ്പരം സ്വതന്ത്രമാണ് മാത്രമല്ല വിവരങ്ങൾ സംഭരിക്കപ്പെടാനുള്ള സാധ്യത അനുസരിച്ചു നോക്കിയാൽ സെൻസ്മേക്കിംഗിനേക്കാൾ വലുത് അർത്ഥം ആണ് ഒരു ടെലിവിഷൻ പ്രോഗ്രാം ഒരു സാധാരണ ഉദാഹരണമാണ് നിങ്ങൾക്ക് ഒരു ടെലിവിഷൻ പ്രോഗ്രാം കാണാം അത് നിങ്ങളെ രസിപ്പിച്ചേക്കാം അതിനു യുക്തി ഉണ്ടെന്നു തോന്നാം പക്ഷേ ഇതിന് ദീർഘകാല അർത്ഥമില്ല ടെലിവിഷൻ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് രസകരമാകുമ്പോൾ തന്നെ അതിന്റെ എല്ലാ വിശദാംശങ്ങളും നിങ്ങൾ മറക്കുന്നു ഒരു വ്യക്തി അത് ദീർഘകാല മെമ്മറിയിൽ സൂക്ഷിക്കുന്നത് ഒരു പാഴ്വേലയാണ് സംഭരണം സംഭവിക്കുന്നതിന് യുക്തിയും അല്ലെങ്കിൽ അർത്ഥവും ഒരു പരിധിവരെ ഉണ്ടായിരിക്കണം വ്യക്തമായും യുക്തിക്കും അർത്ഥത്തിനും നിങ്ങൾ 0 മുതൽ 1 വരെ സ്കെയിൽ ഇടുകയാണെങ്കിൽ ക്ലാസ് മുറിയിൽ നടക്കുന്ന ഏതെങ്കിലും പ്രത്യേക പഠനം സംഭരണം സംഭവിക്കുന്നതിന് കുറച്ച് യുക്തിയും ചില അർത്ഥവും ഉണ്ടായിരിക്കണംഅധ്യാപകനു അത് ഒരു വെല്ലുവിളിയാണ് വിദ്യാർത്ഥികൾക്ക് അതിന്റെ പ്രസക്തിയും അർത്ഥവും മനസിലായി എന്ന് ഞാൻ എങ്ങനെ ഉറപ്പാക്കും അവ എങ്ങനെ അർത്ഥവത്താണെന്ന് അവർക്ക് എങ്ങിനെ മനസിലാക്കി കൊടുക്കും വിദ്യാർത്ഥികൾ അർത്ഥം കണ്ടെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാർഗ്ഗം പാഠ്യപദ്ധതിയിൽ അവരുടെ മുൻകാല അനുഭവങ്ങളിലേക്ക് കണക്ഷനുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് അത് അവരുടെ മുൻകാല അനുഭവവുമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത് വളരെ അപരിചിതവും പുതിയതുമാണ് അവതരിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അതിന് ഒരു അർത്ഥവും കണ്ടെത്താനാവില്ല അതിനാൽ ഇത് ദീർഘകാല മെമ്മറിയിൽ സൂക്ഷിക്കാൻ സാധ്യതയില്ല പാഠ്യപദ്ധതി സമന്വയിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ വിഷയ മേഖലകൾ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ അത് അർത്ഥവും ഓർമ്മയും വർദ്ധിപ്പിക്കുന്നു പ്രത്യേകിച്ചും പുതിയ പാഠത്തിന്റെ ഭാവിയിലെ ഉപയോഗം തിരിച്ചറിയുമ്പോൾ കോഴ്സുകൾ രൂപകൽപ്പന ചെയ്യുന്ന രീതി അവ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുഒരു വിഷയം അറിഞ്ഞിരിക്കേണ്ടത് മറ്റൊന്നിന്റെ ആവശ്യകതയായി മാറുന്നു സീക്വൻസിംഗ് ഇവയെല്ലാം വിദ്യാർത്ഥിക്ക് ഉപയോഗപ്രദമാകുന്ന തരത്തിൽ വളരെ ശ്രദ്ധാപൂർവ്വം രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട് അയാൾക്ക് അതുകൊണ്ടു ഒരു പ്രയോജനം ഉണ്ടെന്നു തോന്നിയില്ലെങ്കിൽ പോലും അയാൾ വിജയിക്കും അയാൾക്ക് ഇപ്പോഴും ഒരു ഗ്രേഡ് ലഭിച്ചേക്കാം പക്ഷേ ആ വിവരങ്ങളൊന്നും ദീർഘകാല മെമ്മറിയിൽ സംഭരിക്കില്ല ദീർഘകാല മെമ്മറികൾ എല്ലാ കാര്യങ്ങളും ഒരിടത്ത് ഒന്നിച്ചു സംഭരിക്കില്ല മെമ്മറിയുടെ വിവിധ ഭാഗങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കുന്നു കൂടാതെ മെമ്മറി തിരിച്ചുവിളിക്കുമ്പോൾ അവ വീണ്ടും കൂട്ടിച്ചേർക്കപ്പെടും നമ്മൾ നൽകുന്ന ഏത് അക്കങ്ങളും ഏകദേശം മാത്രമാണ് ഒരു പഠിതാവിന് 24 മണിക്കൂറിനുശേഷം പുതിയ പഠനം ഓർമ്മിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ 24 മണിക്കൂറോളം എങ്കിലും കാത്തിരിക്കുക എന്നിട്ടും നമുക്ക് അത് ഓർമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ശാശ്വതമായി സംഭരിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം അതിനാൽ അത് ഒരിക്കലും ഓർമ്മിക്കാൻ കഴിയില്ല അതായത് പ്രവർത്തിക്കുന്ന മെമ്മറി തലത്തിൽആയിരിക്കുമ്പോൾ നിങ്ങളുടെ ഭയം അല്ലെങ്കിൽ വൈകാരിക ഘടകം അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മ മുതലായവ സംഭരണത്തിനെ എതിർത്തു അതുകൊണ്ട് 24 മണിക്കൂറിനുശേഷം നിങ്ങൾക്കു ഓർമ്മയില്ല അതിനർത്ഥം ഇത് ശാശ്വതമായി സംഭരിക്കപ്പെടുന്നില്ല എന്നാണ് അതിനർത്ഥം എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ വിദ്യാർത്ഥി വീണ്ടും ഈ മുഴുവൻ പ്രക്രിയയിലൂടെയും ഒന്നുകൂടി കടന്നുപോകണം നിങ്ങൾ പഠിക്കാനുള്ള അവസരം പാഴാക്കുകയാണ് ആ അനുഭവം പാഴായിപ്പോയി നിങ്ങൾ അത് വീണ്ടും സ്വായത്തമാക്കണെമെങ്കിൽ നിങ്ങൾ സ്വയം അത് പഠിക്കണം ഉദാഹരണത്തിന് ടെസ്റ്റിന് തൊട്ടുമുമ്പ് മെറ്റീരിയൽ അവലോകനം ചെയ്യുന്നത്പെട്ടെന്നുള്ള ഉപയോഗത്തിനായി വർക്കിംഗ് മെമ്മറിയിലേക്ക് മെറ്റീരിയൽ എത്തിക്കാൻ വിദ്യാർത്ഥികളെ അനുവദിക്കുന്നു അവിടെയാണ് അധ്യാപകർ പങ്കെടുക്കുന്നത് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ദീർഘകാല സംഭരണത്തിൽ സംഭരിച്ചിരിക്കുന്നു എന്നതിന് യാതൊരു ഉറപ്പുമില്ല അതിനർത്ഥം പരീക്ഷ പാസാകുന്നതിനോ അല്ലെങ്കിൽ പരീക്ഷയിൽ നല്ല പ്രകടനം നേടുന്നതിനോ മതിയായതായിരിക്കാം പക്ഷേ ആ വിവരങ്ങൾ പ്രായോഗികമായി മറന്നുപോകുന്നു ഇത് വളരെ സാധാരണമാണെന്ന് അധ്യാപകർ പറയും എന്ന് എനിക്ക് ഉറപ്പുണ്ട് രണ്ട് സെമസ്റ്ററുകളിൽ ഞാൻ നേരത്തെ എന്തെങ്കിലും പഠിച്ചുവെന്ന് പറയുന്നുപക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒന്നും ഞാൻ ഓർക്കുന്നില്ല കൃത്യമായി പറഞ്ഞാൽ അതിന്റെ കാരണം ഉള്ളടക്കവുമായി ബന്ധമില്ലാത്തതും അവ കണക്റ്റുചെയ്യാത്തതും ആണ്അതായത് വിദ്യാർത്ഥി വർക്കിംഗ് മെമ്മറി ദീർഘകാല മെമ്മറിയിലേക്ക് കൈമാറുന്നതിനുള്ള മുഴുവൻ പ്രക്രിയയും നടത്തിയിട്ടില്ല ദീർഘകാല മെമ്മറിയും ദീർഘകാല സംഭരണവും വ്യത്യസ്തമാണ് ദീർഘകാല മെമ്മറിയുണ്ട് പക്ഷേ അത് എങ്ങനെ സംഭരിക്കുന്നു കൃത്യമായി എവിടെ വിതരണം ചെയ്യുന്നു അവ എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു സംഭരണ സംവിധാനം എന്താണ് ഇതെല്ലാം വളരെ വ്യത്യസ്തമാണ് സംഭരണ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾ പൂർണ്ണമായി മനസിലാക്കേണ്ടതില്ല എന്നാൽ അതിന്റെ ചില സവിശേഷതകൾ നിങ്ങൾക്ക് പരിചിതമാണെങ്കിൽ വീണ്ടെടുക്കൽ പ്രക്രിയയിൽ നിങ്ങൾക്ക് സ്വയം പരിശീലനം നൽകാനും കഴിയും നമ്മുടെ ദീർഘകാല സംഭരണത്തിൽ സംഭരിച്ചിരിക്കുന്ന നമ്മുടെ ബാല്യം മുതൽ ഉള്ള വിവരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ദീർഘകാല മെമ്മറിആണ് ലോകത്തെ കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം രൂപപ്പെടുത്തുന്നത് അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് നമ്മൾ എന്ന വ്യക്തി അതിനാൽ നമ്മുടെ ദീർഘകാല മെമ്മറി എന്താണോ അതാണ് നമ്മൾ ലോകത്തെ നാം എങ്ങനെ കാണുന്നു എന്നതിന്റെ ഈ മുഴുവൻ നിർമ്മിതിയെയും കോഗ്നിറ്റീവ് വിശ്വാസ സമ്പ്രദായം എന്ന് വിളിക്കുന്നു ദീർഘകാല സംഭരണത്തിൽ നിന്ന് ഉണ്ടാകുന്ന ചിന്തകൾക്കും വിവേകത്തിനും കാരണം നമുക്ക് വിവിധ സമയങ്ങളിൽ ഉണ്ടായ വ്യത്യസ്ത അനുഭവങ്ങളാണ് അവയെല്ലാം എങ്ങനെയെങ്കിലും വ്യക്തികളുമായി സംയോജിപ്പിച്ചിരിക്കുന്നു അവ പലവിധത്തിൽ സംയോജിപ്പിക്കാൻ കഴിയും അതിനാൽ ദീർഘകാല സംഭരണത്തിൽ നിന്നുണ്ടാകുന്ന ചിന്തകളും ധാരണകളും വ്യക്തിഗത ഇനങ്ങളുടെ ആകെത്തുകയേക്കാളും കൂടുതലായിരിക്കും നമ്മൾ കൂടുതൽ ഇനങ്ങൾ ശേഖരിക്കുന്നത് തുടരുകയാണെങ്കിൽ സാധ്യമായ കോമ്പിനേഷനുകളുടെ എണ്ണവും ഗണ്യമായി വർദ്ധിക്കുന്നു അതാണ് അതിന്റെ സ്വഭാവം അത് എന്താണെന്ന് നമുക്ക് വീണ്ടും പരിശോധിക്കാം അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ മുഴുവൻ ത്രികോണത്തെയും ദീർഘകാല സംഭരണമെന്ന് നമ്മൾ വിളിക്കുന്നുഇത് കോഗ്നിറ്റീവ് വിശ്വാസ സംവിധാനമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ മറ്റൊരു ആശയം കൊണ്ടുവരുന്നു സ്വയം സങ്കൽപ്പം ഇവിടെ നമ്മൾ ഒരു പോസിറ്റീവ് സെൽഫ് കൺസെപ്റ്റ് ഇടുന്നു പക്ഷേ ഇത് നെഗറ്റീവ് ആകാംഈ കർവ് നമുക്ക്വി പരീതമാക്കാനുംകഴിയും സ്വയം സങ്കൽപ്പം വൈജ്ഞാനിക വിശ്വാസ സമ്പ്രദായം നാം ലോകത്തെ കാണുന്ന രീതിയെ ചിത്രീകരിക്കുമ്പോൾ സ്വയം സങ്കല്പം ആ ലോകത്ത് നമ്മളെ നമ്മൾതന്നെ കാണുന്ന രീതിയെ വിവരിക്കുന്നു സ്വയം സങ്കൽപം വളരെ പോസിറ്റീവ് മുതൽ നെഗറ്റീവ് വരെ ആകാം നിങ്ങളെക്കുറിച്ച് എല്ലായ്പ്പോഴും നെഗറ്റീവ് തോന്നുന്നുവെങ്കിൽ പുതിയ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന രീതി വളരെ വ്യത്യസ്തമായിരിക്കും മുൻകാല അനുഭവങ്ങളാൽ ഈ സ്വയം സങ്കൽപ്പത്തെ രൂപപ്പെടുത്തുന്നു ആളുകൾ വിജയകരമായ പഠന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും പരാജയങ്ങൾ സൃഷ്ടിച്ചവ ഒഴിവാക്കുകയും ചെയ്യും ഉദാഹരണത്തിന് ചില വിഷയങ്ങളിൽ നിങ്ങൾ മോശം പ്രകടനം കാഴ്ച വച്ചുവെന്നു കരുതുക നിങ്ങൾക്ക് അതിൽ ഭയങ്കരമായ മോശം അനുഭവവും ഉണ്ടെങ്കിൽ ആ കോഴ്സിന്റെ തുടർച്ചയായ മറ്റൊരു കോഴ്സിനെ നിങ്ങൾ അതിൽ ഫലപ്രദമായി പഠിക്കില്ല കാരണം ആ പ്രത്യേക വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നെഗറ്റീവ് വികാരമുണ്ട് എല്ലാ വിദ്യാർത്ഥികളെയും തന്നോടൊപ്പം ഒരുമിച്ചു കൊണ്ടുപോകാൻ അധ്യാപകൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അയാൾ വിദ്യാർത്ഥികളുടെ വ്യക്തിഗത സ്വയം സങ്കൽപ്പങ്ങളോട് സംവേദനക്ഷമത പുലർത്തണം പുതിയ വിവരങ്ങൾക്ക് പഠിതാവ് എത്രമാത്രം ശ്രദ്ധ നൽകുമെന്ന് സ്വയം സങ്കൽപം നിർണ്ണയിക്കുന്നു എഞ്ചിനീയറിംഗ് കോളേജിലോ ഉന്നത വിദ്യാഭ്യാസ തലത്തിലോ പോലും ഇത് ഓർമ്മിക്കേണ്ടതാണ് അപമാനിക്കാനും ലജ്ജിപ്പിക്കാനും നിരസിക്കാനും ശിക്ഷിക്കാനുമുള്ള അധ്യാപകന്റെ കഴിവ് ഒരു ഭീഷണിയാണ് നിങ്ങൾ എല്ലാ അദ്ധ്യാപകരും ഇത്തരം അനുഭവം ഉള്ളവരാണ്നിങ്ങൾ വളരെയധികം കഴിവുള്ളവരാണ് നിർഭാഗ്യവശാൽ ചില ആളുകൾ എന്ത് കാരണമായാലും ഈ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു പക്ഷേ വിദ്യാർത്ഥികൾ എല്ലായ്പ്പോഴും ഇത് ഒരു ഭീഷണിയായി കാണും അത് ഒരു ഭീഷണിയാകുമ്പോൾ ഒരു അദ്ധ്യാപകൻ ചെയ്യേണ്ട ഗ്രേഡിംഗ് പോലും ഒരു ഫലദായകമായ പ്രക്രിയയേക്കാൾ ശിക്ഷാർഹമായ ഒന്നായിട്ടാണ് കാണുന്നത് അതിനാൽ ഏതെങ്കിലും ഭീഷണിയുടെ സാന്നിധ്യം വലിയ അളവിൽ ഓർമ്മിക്കേണ്ട പഠനത്തെ തടസ്സപ്പെടുത്തുന്നു അധ്യാപകർക്ക് അവരുടെ ക്ലാസ് മുറികളെ ഭീഷണി ഒഴിവാക്കുന്നതിലൂടെ മികച്ച പഠന അന്തരീക്ഷമാക്കി മാറ്റാൻ കഴിയും സൂക്ഷ്മമായ ഭീഷണിപ്പെടുത്തൽ പോലും ഒരു വിദ്യാർത്ഥി ഒരു ഭീഷണിയായി കാണുമെന്ന് കരുതുന്നു അത് നടക്കുന്ന പഠനത്തെ സ്വാധീനിക്കുന്നു അതിനാൽ ഒരു തരത്തിലും വിദ്യാർത്ഥികൾക്ക് ഭീഷണി നേരിടുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നത് അധ്യാപകർ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന പാഠമാണ് നമ്മൾ യുക്തിയെക്കുറിച്ചും അർത്ഥത്തെക്കുറിച്ചും സംസാരിച്ചു നിങ്ങൾക്കും അതിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ ഉണ്ടായി കാണും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അവതരിപ്പിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നതായി തോന്നുന്നു പക്ഷേ അതുകൊണ്ടു അവർക്കു ഉപകാരം ഉണ്ടെന്നു തോന്നുന്നില്ല അഭ്യാസങ്ങൾ വിദ്യാർത്ഥികൾ യുക്തി കണ്ടെത്തുന്ന എന്നാൽ അവർക്കു നിരർത്ഥകമായി തോന്നുന്ന രണ്ട് ഉദാഹരണങ്ങൾ വിവരിക്കുക നിങ്ങൾക്ക് ഉചിതമെന്നു തോന്നിയ സന്ദർഭം പരമാവധി 250 വാക്കുകൾക്കൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് യുക്തിയും അർത്ഥവും കണ്ടെത്തുന്ന രണ്ട് ഉദാഹരണങ്ങൾ നൽകുക പരമാവധി 250 വാക്കുകൾ അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഇമെയിൽ story com ലേക്ക് അയയ്ക്കാം നമ്മൾ നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കും നിങ്ങളുടെ പ്രതികരണങ്ങൾ നമുക്ക് ധാരാളം ഇൻപുട്ടുകൾ ആയിരിക്കും അടുത്ത യൂണിറ്റിൽ മസ്തിഷ്കം എങ്ങനെ പഠിക്കുന്നു പഠനവും ഓർമ്മയും കൈകാര്യം ചെയ്യുന്നതിൽ തലച്ചോറിനെ സഹായിക്കുന്ന ഇൻസ്ട്രക്ഷൻ രീതികളെക്കുറിച്ച് സംസാരിക്കും വളരെ നന്ദി